എല്ലാവർക്കും സ്വാഗതം എനർജി കൺസർവേഷൻ ആൻഡ് വേസ്റ്റ് ഹിറ്റ് റിക്കവറി വെബ് കോഴ്സിലേക്ക് സ്വാഗതം കോഴ്സിന്റെ ഘടന ഞാൻ ആദ്യം നിങ്ങൾക്ക് തരാം 60 പ്രഭാഷണങ്ങൾ ഉണ്ടാകും ഓരോ പ്രഭാഷണങ്ങളും അരമണിക്കൂർ ദൈർഘ്യവും 2 ഇൻസ്ട്രക്ടർമാരും ഉണ്ടാകും ഞങ്ങൾ രണ്ടു പേരും ഉള്ളടക്കത്തിന്റെ പകുതി വെച്ച് പറയും ഓരോ ആഴ്ചയ്ക്കും ശേഷം ചില വിലയിരുത്തലുകൾ ഉണ്ടാകും കൂടാതെ ചില ഫീഡ്ബാക്കുകളും ഫീഡ്ബാക്കിനുള്ള ക്രമീകരണവും ഉണ്ടാകും നിങ്ങളിൽ നിന്ന് ഞങ്ങൾക്ക് ചോദ്യങ്ങൾ ലഭിക്കും ആ ചോദ്യങ്ങൾക്ക് ഞങ്ങൾ ഉത്തരം നൽകും കോഴ്സിന്റെ അവസാനം ഒരു പരീക്ഷയും ഉണ്ടാകും ചില സർട്ടിഫിക്കേഷനുകളും ഉണ്ടായിരിക്കുന്നതാണ് ശരി ഞാൻ പറഞ്ഞതുപോലെ ഞങ്ങൾ 2 അധ്യാപകർ ഉണ്ട് ഞാൻ പ്രസന്ത കുമാർ ദാസ് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് വകുപ്പിലും എന്നോടൊപ്പം മറ്റൊരു ഇൻസ്ട്രക്ടർ അതേ വകുപ്പിൽ നിന്നുള്ള പ്രൊഫസർ ആനന്ദറൂപ് ഭട്ടാചാര്യ ആയിരിക്കും ഞങ്ങൾക്ക് 2 അധ്യാപന സഹായികൾ ഉണ്ട് ഇരുവരും ഡോക്ടറൽ വിദ്യാർഥികൾ ആണ് ഒരാൾ മ്രിൻമോയ് ധാർ മറ്റൊരാൾ സങ്കൽപ് അർപിത് എല്ലാ വ്യക്തികളുടെയും വിശദാംശങ്ങൾ ഇവിടെ നൽകുന്നു അതിനാൽ നിങ്ങൾക്ക് എന്തെങ്കിലും ആശയക്കുഴപ്പം ഉണ്ടെങ്കിൽ എന്തെങ്കിലും സഹായം മുതലായവ ആവശ്യമെങ്കിൽ നിങ്ങൾക്ക് ഞങ്ങളെ ബന്ധപ്പെടാം പ്രത്യേകിച്ച് അധ്യാപന സഹായികൾ നിങ്ങളെ വളരെയധികം സഹായിക്കും സമയബന്ധിതമായി അവർ ഏകോപിപ്പിക്കും സമയബന്ധിതമായി അർത്ഥമാക്കുന്നത് ഒരാഴ്ചത്തെ കോഴ്സിന് ശേഷം മിക്കവാറും എല്ലാ ആഴ്ചയും അവർ വിലയിരുത്തൽ ഏകോപിപ്പിക്കും നിങ്ങൾക്ക് എന്തെങ്കിലും ചോദ്യങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അവരുടെ ഇമെയിൽ വഴി നേരിട്ട് ബന്ധപ്പെടാം പിന്നെ നമ്മൾ അതിനെക്കുറിച്ച് ചിന്തിക്കുകയാണെങ്കിൽ വിവരത്തിന്റെ ഉറവിടം എന്താണ് അതിന് വ്യക്തമായും ഞങ്ങളുടെ പ്രഭാഷണങ്ങൾ ഉണ്ടാകും നിങ്ങൾക്ക് കുറഞ്ഞ അളവിലുള്ള ബാഹ്യ സഹായം ആവശ്യമുള്ള രീതിയിൽ വിവരങ്ങൾ ഉൾപ്പെടുത്താൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു നിർഭാഗ്യവശാൽ ഈ പ്രത്യേക വിഷയത്തെക്കുറിച്ച് ഒരു സാധാരണ പാഠപുസ്തകമില്ല കാരണം ഇതിൽ ഒന്നിലധികം വിഭാഗങ്ങൾ ആണ് ഉള്ളത് അതുപോലെ വളരെ ആപ്ലിക്കേഷൻ അധിഷ്ഠിതമാണ് എന്നാൽ നിങ്ങൾക്ക് ആദ്യത്തെ റഫറൻസ് കാണാൻ കഴിയുന്ന ഒരു പുസ്തകമുണ്ട് ഇത് കൊറച്ച് പഴയതാണ് അത് ഡി എ റെയുടെ ഹീറ്റ് റിക്കവറി സിസ്റ്റം ആണ് പക്ഷേ വെബിൽ ധാരാളം കാര്യങ്ങളും ലഭ്യമാണ് അവ വളരെ സഹായകരമാണ് അതിൽ ആദ്യത്തേത് വേസ്റ്റ് ഹീറ്റ് റിക്കവറി രീതികളും സാങ്കേതികവിദ്യകളും 2013 ൽ കെമിക്കൽ എഞ്ചിനീയറിംഗ് എന്ന സാങ്കേതിക മാഗസിനിൽ പ്രസിദ്ധീകരിച്ച ഒരു അവലോകന പേപ്പറാണ് ഇത് ഇന്ത്യൻ ഗവൺമെന്റ് ബ്യൂറോ ഓഫ് എനർജി എഫിഷ്യൻസി വളരെ നല്ല ഒരു പ്രമാണം പുറത്തിറക്കി അതും വെബിൽ ലഭ്യമാണ് തുടർന്ന് വേസ്റ്റ് ഹീറ്റ് റിക്കവറി ടെക്നോളജീസ് ആൻഡ് ഓപ്പർച്ചുനിട്ടി ഇൻ യുഎസ് ഇൻഡസ്ട്രി യുഎസ് ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഇൻഡസ്ട്രിയൽ ടെക്നോളജീസ് പ്രോഗ്രാം ഇത് 2008 ൽ പുറത്തിറക്കി മറ്റൊരു പ്രമാണം ഇൻഡസ്ട്രിയൽ വേസ്റ്റ് ഹീറ്റ് റിക്കവറി പൊട്ടൻഷ്യൽ അപ്ലിക്കേഷൻസ് അവയിലബിൾ ടെക്നോളജീസ് ആൻഡ് ക്രോസ്കട്ടിംഗ് ആർ ഡി ഓപ്പർട്ടുനിട്ടീസ് industrial waste heat recovery potential applications available technologies and crosscutting RD opportunities ഇത് ഓക്ക് റിഡ്ജ് നാഷണൽ ലബോറട്ടറി പുറത്തിറക്കി അത് വീണ്ടും സമീപകാല ഉത്ഭവം ആണ് 2014 ൽ പിന്നീട് നിരവധി വ്യവസായങ്ങൾ പ്രമാണങൾ പുറത്തുവിട്ടു ഇവ ഒരു പരിധിവരെ സ്വന്തം ഉൽപ്പന്നം വാങ്ങുന്നവരാണ് എന്നാൽ അവരിൽ ചിലർക്ക് അവയിലൊന്ന് പോലുള്ള പൊതുവായ സവിശേഷതകൾ ഉണ്ട് ഓരോ വിഷയത്തിനും അതിന്റെ മുൻവ്യവസ്ഥകൾ ഉണ്ട് ഈ വിഷയത്തിനും ഉണ്ട് ഞാൻ പറഞ്ഞതുപോലെ ഇത് ഒരുതരം ആപ്ലിക്കേഷൻ തലത്തിലുള്ള വിഷയമാണ് ഇത് അടിസ്ഥാനപരമായ ഒന്നല്ല മറിച്ച് അതിന്റെ ശക്തിയും അടിസ്ഥാനവും ചില അടിസ്ഥാനപരമായ വിഷയങ്ങൾ ആയ തെർമോഡൈനാമിക്സ് ഹീറ്റ് ട്രാൻസ്ഫർ ഫ്ലുയിട് ഫ്ലോ എന്നിവയെ കുറിച്ചുള്ള അടിസ്ഥാന അറിവ് ആണ് പക്ഷേ അത് അടിസ്ഥാനപരമായ അല്ലെങ്കിൽ അടിസ്ഥാന തലത്തിലാണ് ഇവയിൽ ചിലത് നമ്മൾ പുനർനിർണയിക്കും പ്രത്യേകിച്ചും വ്യത്യസ്ത എനർജി ഓപ്ഷനുകളുടെ അതുപോലെ എനർജി പ്രവർത്തനങ്ങളുടെ തെർമോഡൈനാമിക് വശങ്ങൾ ഈ കോഴ്സുമായി മുന്നോട്ട് പോകുമ്പോൾ നമ്മൾ നോക്കും തുടക്കത്തിൽ എന്താണ് എനർജി കൺസർവേഷൻ ആൻഡ് വേസ്റ്റ് ഹീറ്റ് റിക്കവറി എന്ന് നോക്കാം ഈ 2 വിഷയങ്ങൾക്ക് വ്യത്യസ്തമായ നിർവചനങ്ങൾ ഉണ്ടാകാം എന്നാൽ ചില പ്രാവർത്തികമായ നിർവചനങ്ങൾ നമ്മൾ പുറത്ത് നിന്ന് അനുവദിക്കും അതിനാൽ നമുക്ക് ഈ കോഴ്സുമായി മുന്നോട്ട് പോകാം എനർജി സംരക്ഷണം എന്നാൽ ഒരു പ്രക്രിയയിലോ സിസ്റ്റത്തിലോ അല്ലെങ്കിൽ ഒരു ഓർഗനൈസേഷനോ സമൂഹമോ വിവിധ പ്രവർത്തനങ്ങളിലൂടെ ഉപയോഗിക്കുന്ന എനർജിയുടെ അളവ് കുറയ്ക്കുന്നതായി കണക്കാക്കാം ഈ വ്യത്യസ്ത പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണ് ഈ പ്രവർത്തനങ്ങൾ ശരിയായ രൂപകൽപ്പനയും സമ്പദ്വ്യവസ്ഥയുടെ ആസൂത്രണവുമാണ് എനർജിയുടെ സമ്പദ്വ്യവസ്ഥ എനർജിയുടെ യുക്തിസഹമായ ഉപയോഗത്തിലൂടെ പാഴാക്കുന്നത് ഒഴിവാക്കുന്നതി ലൂടെയും റിക്കവറിയിലൂടെയും അവസാന വാക്ക് റിക്കവറി നിങ്ങൾക്ക് കാണാം അതായത് അടിസ്ഥാനപരമായി അത് വേസ്റ്റ് ഹീറ്റ് റിക്കവറി അത് ചുവപ്പ് നിറത്തിലാക്കിയിരിക്കുന്നു അതിനർത്ഥം എനർജി സംരക്ഷണം കൂടുതൽ വിശാലമായ കാഴ്ചപ്പാടാണെന്നും വേസ്റ്റ് ഹീറ്റ് റിക്കവറി അല്ലെങ്കിൽ റിക്കവറി അതിൽ ഒരു ഭാഗമാണെന്നും ഞങ്ങൾ കാണിക്കാൻ ആഗ്രഹിക്കുന്നു അതിനാൽ എനർജി സംരക്ഷണം വളരെ വലിയ ഒരു ഭാഗമാണെന്ന് നിങ്ങൾ കരുതുന്നുവെങ്കിൽ വേസ്റ്റ് റിക്കവറി അതിന്റെ ഒരു ഉപവിഭാഗമായിരിക്കും ഇപ്പോൾ വേസ്റ്റ് ഹീറ്റ് റിക്കവറി എന്താണെന്ന് നമുക്ക് നോക്കാം ആദ്യം അത് ലാഭകരമായി ഉപയോഗിക്കാൻ സാധ്യതയുണ്ടെങ്കിലും ഒരു പ്രക്രിയ അല്ലെങ്കിൽ ഒരു ഉപകരണം വഴി പാഴാക്കുന്ന വേസ്റ്റ് ഹീറ്റ് എനർജി എന്താണ് അതിനാൽ ആ താപ ഊർജ്ജത്തെ വേസ്റ്റ് ഹീറ്റ് എന്ന് വിളിക്കുന്നു അതിനാൽ വ്യവസായത്തിൽ നാം താപ ഊർജ്ജം പരിസ്ഥിതിയിലേക്ക് കളയുന്ന ധാരാളം ഉദാഹരണങ്ങൾ കണ്ടെത്തും കാരണം ഏത് തരത്തിലുള്ള മെക്കാനിക്കൽ ഊർജവും താപ ഊർജത്തിൽനിന്ന് ആണ് എടുക്കുന്നത് അവിടെയാണ് സെക്കൻ്റ് ലോയുടെ ആവശ്യകത കാരണം അങ്ങനെയാണ് ഒരാൾക്ക് താപം കൈമാറ്റം ചെയ്യാൻ കഴിയുക ആത്യന്തികമായി നിശ്ചിത അളവിലുള്ള താപ ഊർജ്ജം പരിസ്ഥിതിയിലേക്ക് കളയണം ഒരു നിശ്ചിത അളവിലുള്ള താപ ഊർജ്ജം പരിസ്ഥിതിയിലേക്ക് കളയണം എന്നുള്ളത് നിർബന്ധമാണ് ഇപ്പോൾ ഇത് ഉപേക്ഷിക്കുമ്പോൾ ഉപേക്ഷിക്കൽ അത്യാവശ്യമാണ് ഇപ്പോൾ അതിൽ എത്രമാത്രം ഏത് താപനിലയിലാണ് നാം താപ ഊർജ്ജം കളയുന്നത് എന്നത് ഒരു സങ്കല്പമാണ് എന്നാൽ താപ ഊർജ്ജം കളയുന്ന അളവോ താപനിലയോ എന്തുതന്നെയായാലും ഈ ഊർജ്ജത്തെ വേസ്റ്റ് ഹീറ്റ് എന്ന് വിളിക്കുന്നു ഇപ്പോൾ വേസ്റ്റ് ഹീറ്റ് റിക്കവറി എന്താണ് വേസ്റ്റ് ഹീറ്റ് റിക്കവറി എന്നത് മറ്റെവിടെയെങ്കിലും ഉപയോഗിക്കുന്നതിനുള്ള ഉദ്ദേശ്യത്തിനായി മെഷിനറികളുടെ ഏതെങ്കിലും ഭാഗത്തിൻ്റെ പ്രവർത്തനത്തിന്റെ അനാവശ്യ ഉൽപ്പന്നമായി സൃഷ്ടിക്കപ്പെട്ട താപത്തിന്റെ ശേഖരമാണ് അതിനാൽ ഒരു ഉദാഹരണം നോക്കാം നിങ്ങൾ ഒരു കാർ വാങ്ങി അല്ലെങ്കിൽ ഒരു 2 വീലർ വാങ്ങി എന്ന് പറയാം അതിനാൽ കാറിനും 2 വീലറിനും ഒരു എക്സ്ഹോസ്റ്റ് ഉണ്ട് കാരണം അത് ഒരു ഇൻ്റേണൽ കംബഷൻ എഞ്ചിൻ ആണ് എഞ്ചിനുള്ളിലെ ഇന്ധനം ഒരു ജ്വലന പ്രക്രിയയ്ക്ക് വിധേയമാകുന്നു ഊർജ്ജം താപോർജ്ജമായി പുറത്തുവിടുകയും തുടർന്ന് അവയുടെ ശക്തിയിൽ നിന്ന് കാർ അല്ലെങ്കിൽ 2 വീലർ നീങ്ങുന്നു അതിനാൽ പുറത്തുവരുന്ന എക്സ്ഹോസ്റ്റ് ഗ്യാസ് പരിതസ്ഥിതിയുടെ അവസ്ഥയോ പരിതസ്ഥിതിയുടെ താപനിലയോ താരതമ്യപ്പെടുത്തുമ്പോൾ വളരെ ഉയർന്ന താപനിലയിലായിരിക്കും അതിനാൽ ഇതാണ് വേസ്റ്റ് ഹീറ്റ് ഇപ്പോൾ ഓട്ടോമൊബൈൽ ഒരു വലിയ ഒന്നാണെന്ന് നമുക്ക് പറയാം ഈ വേസ്റ്റ് ഹീറ്റ് പരിസ്ഥിതിയോട് ഉപയോഗപ്രദമായി മാറ്റുന്നതിനുള്ള ചില ഓപ്ഷനുകൾ നമ്മൾക്കുണ്ട് അത് വലിയ ഓട്ടോമൊബൈലുകൾക്ക് ഉപയോഗിക്കാനാകുമെന്ന് നമുക്ക് പറയാം ഏതെങ്കിലും തരത്തിലുള്ള അബ്സോർപ്ഷൻ സൈക്കിൾ ഉപയോഗിക്കുന്ന തണുപ്പിക്കൽ ആവശ്യത്തിനായി ഈ വേസ്റ്റ് ഹീറ്റ് ഉപയോഗിക്കാം അതിനാൽ ഇത് നിങ്ങളുടെ വേസ്റ്റ് ഹീറ്റ് വിനിയോഗമാണ് അതിനാൽ വേസ്റ്റ് ഹീറ്റ് പല വ്യാവസായിക പ്രക്രിയകളുടെയും ഭാഗമാണ് അതിനാൽ കുറച്ച് അളവിലുള്ള താപ ഊർജ്ജം അന്തരീക്ഷത്തിലേക്ക് കളയേണ്ടതുണ്ട് എന്നാൽ ഈ താപ ഊർജ്ജത്തിന്റെ ഒരു ഭാഗം തിരികെ പരിവർത്തനം ചെയ്യാൻ കഴിയുന്ന നിരവധി ഓപ്ഷനുകളോ നിരവധി അവസരങ്ങളോ ഉണ്ട് അവയെ നമുക്ക് വേസ്റ്റ് ഹീറ്റ് റിക്കവറി എന്ന് വിളിക്കാനാകും എന്തിനാണ് വേസ്റ്റ് ഹീറ്റ് റിക്കവറി ഈ ചിത്രത്തിൽ വേസ്റ്റ് ഹീറ്റ് വീണ്ടെടുക്കാനുള്ള സാധ്യതകൾ പരിശോധിക്കാം അഗ്നിപർവ്വത സ്ഫോടനത്തിന്റെ ഒരു ഫോട്ടോ കാണാം ലാവ അസാധാരണമായ ഊർജ്ജ സ്രോതസ്സാണ് ഉദാഹരണത്തിന് തെക്കൻ ഐസ്ലാന്റിൽ 1783 ലെ ലാകി പൊട്ടിത്തെറിയിൽ 15 ക്യുബിക് കിലോമീറ്റർ ലാവ ഉൽപാദിപ്പിച്ചു ലാവയിൽ നിന്ന് പുറത്തുവന്ന താപം 80 എക്സാജൂൾ ഉണ്ടായിരുന്നു എക്സാജൂൾ എന്നുവെച്ചാൽ 10 ന് പവർ പതിനെട്ട് ജൂൾ എന്നാണ് എല്ലാ ലോക വ്യവസായങ്ങളും 6 മാസത്തേക്ക് പ്രവർത്തിക്കാൻ ആവശ്യമായ ഊർജ്ജം ആണ് അത് ഇത് ഞാൻ വെബ്സൈറ്റിൽ നിന്നോ ആൽഫ ലാവൽ പ്രസിദ്ധീകരിച്ച വെബ് ഡോക്യുമെന്റിൽ നിന്നോ എടുത്തതാണ് അതിനാൽ ആത്യന്തികമായി എന്താണ് സംഭവിച്ചതെന്ന് നിങ്ങൾ കാണുന്നു 6 മാസത്തേക്ക് ലോകത്തെ മുഴുവൻ വ്യവസായങ്ങളും പ്രവർത്തിപ്പിക്കാൻ കഴിയുന്ന താപ ഊർജ്ജത്തിന്റെ വലിയ അളവ് അതിനാൽ നാം പാഴാക്കുന്ന താപ ഊർജ്ജത്തിന്റെ സാധ്യത എന്തായിരിക്കുമെന്നതിന് ഇത് ഒരു ഉദാഹരണം നൽകുന്നു തീർച്ചയായും ഈ ഉദാഹരണം എടുത്തത് ഏതെങ്കിലും തരത്തിലുള്ള വ്യവസായത്തിൽ നിന്നല്ല പ്രകൃതി പ്രതിഭാസങ്ങളിൽ നിന്നാണ് എന്നാൽ വ്യവസായത്തിൽ വലിയ അളവിൽ താപ ഊർജ്ജം ഉപയോഗിക്കാതെ പാഴാക്കുകയോ അല്ലെങ്കിൽ അതിന് സാധ്യതയില്ലാത്ത പരിസ്ഥിതിയിലേക്ക് വലിച്ചെറിയുകയോ ചെയ്യുന്ന ഉദാഹരണങ്ങൾ ഞങ്ങൾക്ക് കാണാം ഊർജ്ജ സംരക്ഷണ നയമായി കണ്ട് ഇത് വീണ്ടെടുക്കാൻ നമ്മൾ ശ്രമിക്കുന്നു അതിനാൽ ഒരുപക്ഷേ ഊർജ്ജ പ്രതിസന്ധികളോടുള്ള വർദ്ധിച്ചുവരുന്ന ആശങ്കയെക്കുറിച്ച് പരാമർശിക്കുന്നത് ഒരുതരം ത്വരിതപ്പെടുത്തലായിരിക്കാം അതിനർത്ഥം വ്യവസായവൽക്കരണം പുരോഗമിക്കുമ്പോൾ പോലെ വളരെ വേഗത്തിൽ ലഭ്യമായിരുന്ന ഫോസിൽ ഇന്ധനം കുറയുന്നു അതോടൊപ്പം ഊർജ്ജ ഉപയോഗത്തിലൂടെ നമ്മുടെ പരിസ്ഥിതിയെയും തരം താഴ്ത്തുന്നു അതിനാൽ ഇത് രണ്ടിലും ഒരു തരം മന്ദതയുണ്ടാക്കുന്നതിന് വേസ്റ്റ് ഹീറ്റ് റിക്കവറി വളരെ കാര്യക്ഷമമായ മാർഗമാണ് അതിനർത്ഥം ലഭ്യമായ ഫോസിൽ ഇന്ധനത്തിന്റെ അപചയ നിരക്ക് നമുക്ക് മന്ദഗതിയിലാക്കാനും പരിസ്ഥിതിയുടെ അപചയത്തെ മന്ദഗതിയിലാക്കാനും കഴിയും അതിനാൽ ഊർജ്ജ സംരക്ഷണത്തിന്റെ മുഴുവൻ പ്രവർത്തനത്തിന്റെയും പ്രവർത്തനങ്ങളിലൊന്നായ വേസ്റ്റ് ഹീറ്റ് റിക്കവറിയുടെ പ്രാധാന്യം അത് കാണിക്കുന്നു ഇപ്പോൾ ഈ കോഴ്സിൽ ഞങ്ങൾ എന്താണ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത് വേസ്റ്റ് ഹീറ്റ് റിക്കവറി ഞങ്ങൾ വളരെയധികം ഊന്നൽ നൽകാൻ പോകുന്നു പക്ഷേ ഊർജ്ജ സംരക്ഷണം ഇല്ലാതെ വേസ്റ്റ് ഹീറ്റ് റിക്കവറി ചർച്ചചെയ്യാൻ കഴിയില്ല മാത്രമല്ല കുറച്ച് ഊർജ്ജ സംരക്ഷണ തത്വങ്ങളുണ്ട് അവ വേസ്റ്റ് ഹീറ്റ് റിക്കവറി ചർച്ചചെയ്യുമ്പോൾ ഞങ്ങൾ കുറച്ചുകൂടി ആഴത്തിൽ പറയും അതുകൊണ്ടാണ് ഈ കോഴ്സിനെ എനർജി കൺസർവേഷൻ ആൻഡ് വേസ്റ്റ് ഹീറ്റ് റിക്കവറി എന്ന് നാമകരണം ചെയ്തിരിക്കുന്നത് എന്നാൽ ഇവിടെ ഞാൻ ഒരുതരം ചോദ്യാവലി നൽകാൻ ആഗ്രഹിക്കുന്നു ഇത് ഊർജ്ജ സംരക്ഷണത്തിന്റെ എല്ലാ വശങ്ങളും ഉൾക്കൊള്ളുന്നില്ല പക്ഷെ വേസ്റ്റ് ഹീറ്റ് റികവറി പൂർണ്ണ ആഴത്തിലേക്ക് പോയി പക്ഷേ ഊർജ്ജ സംരക്ഷണത്തിനായി തിരഞ്ഞെടുത്ത ചില വിഷയങ്ങളിൽ ഞങ്ങൾ സ്പർശിച്ചിട്ടുണ്ട് അവ വളരെ പ്രധാനപ്പെട്ടതും വേസ്റ്റ് ഹീറ്റ് റിക്കവറിയുമായി ബന്ധപ്പെട്ടതുമാണ് ഇപ്പോൾ നമ്മൾ വേസ്റ്റ് ഹീറ്റ് വീണ്ടെടുക്കാനുള്ള സാധ്യതകളുമായി മുന്നോട്ട് പോകുമ്പോൾ വേസ്റ്റ് ഹീറ്റ് വീണ്ടെടുക്കാനുള്ള യഥാർത്ഥ സാധ്യത എന്താണ് നമുക്ക് നോക്കാം വേസ്റ്റ് ഹീറ്റ് വീണ്ടെടുക്കാനുള്ള സാധ്യത നോക്കുകയാണെങ്കിൽ ഒരു ശരാശരി വ്യവസായത്തിന്റെ വേസ്റ്റ് ഹീറ്റ്ൻ്റെ അളവ് ഊർജ്ജ ഉപഭോഗത്തിന്റെ 20 50 ആണെന്ന് ചില കണക്കുകൾ പ്രകാരം കാണാം അതിനാൽ നമ്മൾക്ക് ആവശ്യമായ ഒരു വ്യവസായം നടത്തുന്നതിന് ഊർജ്ജം അത് ഗ്രിഡിൽ നിന്ന് വിതരണം ചെയ്യുന്ന വൈദ്യുതി അല്ലെങ്കിൽ ആതെ വ്യവസായത്തിലെ ക്യാപ്റ്റീവ് പവർ പ്ലാന്റിൽ നിന്ന് ഉത്പാദിപ്പിക്കപ്പെടുന്ന വൈദ്യുതി അല്ലെങ്കിൽ വ്യവസായത്തിന് വ്യത്യസ്ത തരത്തിലുള്ള ആവശ്യങ്ങൾക്ക് ഇന്ധനം ആവശ്യമാണ് അതിനാൽ ചൂടുള്ള വായു അല്ലെങ്കിൽ ചൂടുവെള്ളം അല്ലെങ്കിൽ നീരാവി ഉണ്ടാക്കാൻ ഇന്ധനം കത്തിക്കണം അതിനാൽ അതിന് ഊർജ്ജം ആവശ്യമാണ് വൈദ്യുതിയുടെയോ താപ ഊർജ്ജത്തിന്റെയോ രൂപത്തിൽ ഊർജ്ജ ഉപഭോഗം ഉണ്ട് വേസ്റ്റ് ഹീറ്റ് റിക്കവറി ഈ ഊർജ്ജ ഉപഭോഗം 20 മുതൽ 50 വരെ കുറയ്ക്കുംഅതൊരു വലിയ അളവ് ആണ് മറ്റൊരു കണക്കിൽ ഈ കണക്ക് അന്താരാഷ്ട്ര എനർജി ഏജൻസിയായ ഐഇഎയുടെ യുടെ ആണ് എല്ലാ വ്യവസായങ്ങളും ഉപയോഗിക്കുന്ന ഊർജ്ജത്തിന്റെ 50 വേസ്റ്റ് ഹീറ്റ് ആയി പുറത്തുവിടുന്നു അതിനാൽ ഇതിന് 2 അനുമാനം ഉണ്ട് നമ്മൾ എത്രമാത്രം ഊർജ്ജം പാഴാക്കുന്നത് അതുപോലെ എത്ര ഊർജ്ജം വീണ്ടും ഉപയോഗിക്കാമെന്നത് എടുത്ത് പറയുന്നുണ്ട് അല്ലെങ്കിൽ പറയുന്നില്ല അതിനാൽ ഇത് സാധ്യത കാണിക്കുന്നു ഊർജ്ജം പരിസ്ഥിതിയിലേക്ക് പോയാൽ പാഴായിപ്പോകുന്നതെല്ലാം മലിനീകരണ സാധ്യതയുള്ള ഒരു സ്രോതസ്സാണെന്നതിനാൽ വ്യക്തമായും 50 ഊർജ്ജം ചില ജോലികൾക്കായി ഉപയോഗികക്കാൻ സാധിക്കുന്നതാണ് അത് ഉപയോഗപ്പെടുത്താൻ കഴിയാത്തതിനാൽ അത് പാഴായിപ്പോകുമ്പോൾ ഇത് മലിനീകരണ സാധ്യതയുള്ള ഒരു ഉറവിടമാണ് അതിനാൽ അതിന്റെ ഒരു ഭാഗം വീണ്ടെടുക്കാൻ കഴിയുമെങ്കിലും നമുക്ക് ലഭിക്കുന്നത് ഇന്ധന ചക്രം മുറിക്കുകയും അതേ സമയം നമ്മൾ പരിസ്ഥിതിയെ സംരക്ഷിക്കുകയും ചെയ്യുന്നു അതിനാൽ വേസ്റ്റ് ഹീറ്റ് റിക്കവറിയിലേക്ക് ഈ ഘട്ടത്തിൽ മടങ്ങിവരും അത് വീണ്ടും ആവർത്തിക്കുന്നുകാരണം അത് പ്രധാനപ്പെട്ടവ ആണ് അതിനാൽ ഈ വേസ്റ്റ് ഹീറ്റ് റിക്കവറി നടത്തുമ്പോൾ വേസ്റ്റ് ഹീറ്റ് വീണ്ടെടുക്കലിന്റെ ഏതെങ്കിലും പ്രവർത്തനം ചെയ്യുമ്പോൾ അതിന് 2 കൃത്യമായ സമീപനം ഉണ്ട്നമ്മൾ ഇന്ധനം ലാഭിക്കുന്നു ഊർജ്ജം ലാഭിക്കുന്നു അതേ സമയം തന്നെ നമ്മുടെ പരിസ്ഥിതി സംരക്ഷണവും ചെയുന്നൊണ്ട് അതിനാൽ ഈ 2 കണക്കുകളിൽ നിന്ന് നോക്കുകയാണെങ്കിൽ വേസ്റ്റ് ഹീറ്റ് റിക്കവറിക്ക് വളരെ വലിയ സാധ്യത ഉണ്ട് ചില അഭിപ്രായങ്ങൾ വെച്ച് വേസ്റ്റ് ഹീറ്റ് റിക്കവറിക്ക് റിന്യുവാബിൾസുമായി മത്സരിക്കാനാകും അതിനാൽ ഈ പോയിന്റിന് ചില വിശദീകരണങ്ങൾ ആവശ്യമാണ് ഫോസിൽ ഇന്ധനങ്ങൾ ഇല്ലാതാക്കുന്നതിനാൽ പുനരുൽപ്പാദിപ്പിക്കലിനെക്കുറിച്ച് നമ്മൾ കൂടുതൽ സംസാരിക്കുന്നു പുനരുൽപ്പാദിപ്പിക്കാവുന്നവയെക്കുറിച്ച് വീണ്ടും സംസാരിക്കുകയാണെങ്കിൽ നിരവധി ഗുണങ്ങളുണ്ട് ഒന്നാമതായി അത് അർത്ഥമാക്കുന്നത് നമ്മൾ അത് കുറക്കുകയല്ല വിൻ്റ് എനർജി അല്ലെങ്കിൽ സൌരോർജ്ജം അല്ലെങ്കിൽ സമുദ്ര ഊർജ്ജം പോലുള്ള പുനരുൽപ്പാദിപ്പിക്കാവുന്ന ഉപയോഗിക്കുമ്പോൾ നമ്മൾ അത് കുറക്കുന്നില്ല അത് ലഭ്യമാക്കുക മാത്രമാണ് ചെയ്യുന്നത് അതിനാൽ നമ്മൾ പരിസ്ഥിതിയെ നശിപ്പിക്കുന്നില്ല ഇപ്പോൾ പുനരുൽപ്പാദിപ്പിക്കാവുന്ന ഊർജ്ജത്തിന്റെ ഈ 2 വശങ്ങൾ നമ്മൾ മനസ്സിലാക്കുകയാണെങ്കിൽ പുനരുപയോഗിക്കാവുന്ന ഊർജ്ജം ഉപയോഗിക്കുന്നതിന് വളരെയധികം സമ്മർദ്ദവുംഊന്നൽ കൊടുക്കലും ഉണ്ട് അതുപോലെ ധാരാളം ഗവേഷണ പ്രവർത്തനങ്ങൾ ഉണ്ട് സർക്കാർ ഏജൻസികളിൽ നിന്നുള്ള ധാരാളം സംരംഭ പ്രോത്സാഹനങ്ങളും കൂടാതെ നിർദ്ദേശങ്ങളും ഉണ്ട് കൂടാതെ പുനരുപയോഗ ഊർജ്ജം ഉപയോഗിക്കുന്നതിനുള്ള നിയമനിർമ്മാണങ്ങളും ഉണ്ട് ഇവിടെ ഒരാൾക്ക് പറയാനാകും വേസ്റ്റ് ഹീറ്റ് റിക്കവറി റിന്യുവബിൾ അല്ലെങ്കിലും അത് ഒരു ബദൽ മാർഗ്ഗമായി കണക്കാക്കാം അത് പുനരുൽപ്പാദിപ്പിക്കാവുന്നതിന് തുല്യമാണ് കാരണം ഇതിന് 2 ശക്തമായ വശങ്ങൾ ലഭിച്ചിട്ടുണ്ട് അത് ഊർജ്ജം ലാഭിക്കാൻ കഴിയും വിലകൂടിയ ഫോസിൽ ഇന്ധനം ലാഭിക്കുക അതേ സമയം അത് പരിസ്ഥിതിയുടെ അപചയം കുറയ്ക്കുകയാണ് മറ്റെന്തെങ്കിലും നേട്ടമുണ്ടോ അതെ പുനരുപയോഗവുമായി താരതമ്യപ്പെടുത്തുമ്പോൾ കൂടുതൽ ഗുണങ്ങളുണ്ട് പുനരുപയോഗ ഊർജ്ജത്തിന്റെ കാഠിന്വം കാരണം ഒരു പുതിയ സജ്ജീകരണം നടത്തേണ്ടതുണ്ട് എന്നാൽ വേസ്റ്റ് ഹീറ്റ് റിക്കവറിക്ക് നിങ്ങൾക്ക് ഇതിനകം തന്നെ ഒരു ഫാക്ടറിയോ വ്യവസായമോ ഉണ്ടെന്ന് നിങ്ങൾക്ക് പറയാം അതിനാൽ ഈ വേസ്റ്റ് ഹീറ്റ് റിക്കവറിക്കുള്ള നിങ്ങളുടെ നിക്ഷേപം പുനരുപയോഗിക്കാവുന്ന ഊർജത്തിൻ്റെ നിക്ഷേപവുമായി താരതമ്യപ്പെടുത്തുമ്പോൾ വളരെ കുറവായിരിക്കാം കാരണം നിലവിലുള്ള സജ്ജീകരണത്തിൽ തന്നെ നിങ്ങൾ ചില വേസ്റ്റ് ഹീറ്റ് വീണ്ടെടുക്കാനും അത് വീണ്ടും ഉപയോഗിക്കാനും ശ്രമിക്കുന്നു അതിനാൽ പല സന്ദർഭങ്ങളിലും നിലവിലുള്ള വ്യവസായങ്ങൾ നോക്കുകയാണെങ്കിൽ വേസ്റ്റ് ഹീറ്റ് റിക്കവറിക്ക് പ്രത്യേകമായി റിന്യുവബിൾ എനർജി യുടെമേൽ ഒരു സ്വാധീനം ഉണ്ട് അല്ലാത്ത പക്ഷം ഇവ രണ്ടും കൈകോർത്തുപോകാം ഒരാൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള ഊർജ്ജ കേന്ദ്രം ഉണ്ടായിരിക്കാം അവിടെ ഫോസിൽ ഇന്ധനം ഉണ്ടാകുംഅതുപോലെ റിന്യുവബിളും ഉണ്ട് കൂടാതെ വേസ്റ്റ് ഹീറ്റ് റിക്കവറി തത്വങ്ങളും ഉണ്ടാകും ഈ പ്രവർത്തനങ്ങളെല്ലാം ഉപയോഗിച്ച് ഏറ്റവും മികച്ച രീതിയിൽ പരിസ്ഥിതി ഊർജ്ജം പ്രയോജനപ്പെടുത്തുന്നതിനുള്ള ഒരു മികച്ച ഓപ്ഷൻ ഉണ്ടാകും ചില വ്യവസായങ്ങളിൽ വേസ്റ്റ് ഹീറ്റ് റിക്കവറി തികച്ചും അത്യാവശ്യമാണ് അതിനാൽ ആ വ്യവസായത്തിന് വർഷങ്ങളോളം മത്സരാധിഷ്ഠിതമാകാൻ ആ വ്യവസായങ്ങൾ വേസ്റ്റ് ഹീറ്റ് റിക്കവറി വ്യത്യസ്ത രൂപത്തിൽ ഉപയോഗിക്കുന്നു ഉദാഹരണം പെട്രോളിയം റിഫൈനറി പെട്രോളിയം റിഫൈനറിയിലെ നമ്മുടെ പ്രവർത്തനം എന്താണ് ഫ്രാക്ഷണൽ ഡിസ്റ്റിലേഷൻ വഴി നമുക്ക് വ്യത്യസ്ത ഗ്രേഡുകൾ ഉള്ള എണ്ണ ലഭിക്കും അതിനാൽ ഫ്രാക്ഷണൽ ഡിസ്റ്റിലേഷന് ചൂടാക്കലും തണുപ്പിക്കലും ആവശ്യമാണ് നിങ്ങൾ ഈ ചൂടാക്കലും തണുപ്പിക്കലും വെവ്വേറെ ചെയ്താൽ നമുക്ക് പറയാം ഊർജ്ജത്തിന്റെ ആവശ്യകത വളരെ കൂടുതലായിരിക്കും ഒരു റിഫൈനറിയിൽ നിന്ന് ഉത്പാദിപ്പിക്കുന്ന ഉൽപ്പന്നം വിപണിയിൽ മത്സരാധിഷ്ഠിതമാകില്ല എന്നാൽ അതേ സമയം വേസ്റ്റ് ഹീറ്റ് റിക്കവറി തത്വം അല്ലെങ്കിൽ പൊതുവേ ഊർജ്ജ സംരക്ഷണ തത്വങ്ങൾ പിന്തുടരുകയാണെങ്കിൽ കൂടാതെ ചൂടാക്കലും തണുപ്പിക്കലും പരസ്പരം ആന്തരികമായി നിർമ്മിക്കാൻ കഴിയുമോ അല്ലെങ്കിൽ കുറഞ്ഞ അളവിലുള്ള സഹായം പുറത്തുനിന്ന് എടുക്കുക വ്യക്തമായും ഈ പ്രശ്നത്തിന് നമ്മൾക്ക് കാര്യക്ഷമമായ ഉത്തരം ലഭിക്കും എയർ വേർതിരിക്കൽ പ്ലാന്റിനും ഇത് ബാധകമാണ് കൂടാതെ വർഷങ്ങളോളം വേസ്റ്റ് ഹീറ്റ് റിക്കവറി പരിശീലിക്കുന്ന നിരവധി ഉദാഹരണങ്ങളുണ്ട് പക്ഷേ ഇത് പര്യാപ്തമല്ല എന്നതാണ് വിഷയംവേസ്റ്റ് ഹീറ്റ് റിക്കവറിക്ക് വളരെ സാധ്യത ഉണ്ട് അതിനാൽ ഊർജ്ജം താപ രൂപത്തിൽ വീണ്ടെടുക്കുന്ന രൂപമാണ് വേസ്റ്റ് ഹീറ്റ് റിക്കവറി താപ ഊർജ്ജ ഉപയോഗമുള്ള മേഖലകളിൽ നിന്നാണ് ഇത് വരുന്നത് വ്യത്യസ്ത മേഖലകളുണ്ട് മൂന്ന് പ്രധാന മേഖലകൾ പറയാം അതിൽ കൂടുതലോ കാണാം ഒന്ന് വ്യാവസായിക മേഖല ഒന്ന് വാണിജ്യ മേഖല ആഭ്യന്തര മേഖല മറ്റൊരു പ്രധാന മേഖല ഗതാഗതം ആണ് വേസ്റ്റ് ഹീറ്റ് റിക്കവറി പരമാവധി പരിശ്രമമം നടക്കുന്നത് വ്യാവസായിക മേഖലയിൽ ആണ് കാരണം വ്യാവസായിക മേഖലയിൽ നമുക്ക് വേസ്റ്റ് ഹീറ്റ് വീണ്ടെടുക്കാനുള്ള പരമാവധി സാധ്യതയുണ്ട് പക്ഷേ മറ്റ് 2 മേഖലകൾ പര്യവേക്ഷണം ചെയ്യപ്പെടാത്തവയാണെങ്കിലും പ്രത്യേകിച്ച് വാണിജ്യ മേഖലയിൽ വേസ്റ്റ് ഹീറ്റ് വീണ്ടെടുക്കൽ തത്വങ്ങളിലൂടെ ചില ഊർജ്ജ സംരക്ഷണവും ഉത്പാദിപ്പിക്കാൻ കഴിയും കൂടാതെ വാണിജ്യ മേഖലയിൽ വേസ്റ്റ് ഹീറ്റ് റിക്കവറി തത്വങ്ങൾ പ്രയോഗിക്കുന്നതിന് ഇതിനകം ചില മുൻകൈകൾ എടുത്തിട്ടുണ്ട് സാധ്യത ഉള്ള വ്യവസായങ്ങൾ ഊർജ്ജ വ്യവസായം നമുക്ക് നോക്കാം അതിനാൽ ഊർജ്ജ വ്യവസായത്തിൽ നമ്മൾ ചെയ്യുന്നത് അടിസ്ഥാനപരമായി വൈദ്യുതി ഉൽപാദിപ്പിക്കുന്നു വൈദ്യുതോർജ്ജം ഉൽപാദിപ്പിക്കുന്നു ചില സ്രോതസ്സുകളിൽ നിന്ന് താപ മെക്കാനിക്കൽ ഇലക്ട്രിക്കൽ വഴി ആണ് അത്താപോർജ്ജം നമുക്ക് ലഭിക്കുന്നു താപോർജ്ജം മെക്കാനിക്കൽ എനർജിയായി പരിവർത്തനം ചെയ്യപ്പെടുന്ന തുടർന്ന് ഈ മെക്കാനിക്കൽ ഊർജ്ജം വൈദ്യുതോർജ്ജമായി പരിവർത്തനം ചെയ്യുന്നു അതിനാൽ ഫോസിൽ ഇന്ധനത്തെ ആശ്രയിക്കുന്ന വൈദ്യുതി ഊർജ്ജം വ്യക്തമായും വേസ്റ്റ് ഹീറ്റ് വീണ്ടെടുക്കാൻ ഇതിൽ ധാരാളം അവസരങ്ങളുണ്ട് അതുപോലെ പ്രോസസ്സ് ഇൻഡസ്ട്രിസ് ഇതിനകം ഞാൻ റിഫൈനറികളെ പറ്റി പറഞ്ഞിട്ടുണ്ട് തുടർന്ന് പെട്രോകെമിക്കൽസ് കെമിക്കൽസ് സിമന്റ് ഗ്ലാസ് തുടങ്ങിയവയുണ്ട് ഗതാഗതം ഗതാഗതം എന്നത് ഒരു നല്ല മേഖലയാണ് അത് ആളുകളുടെയും ചരക്കുകളുടെയും ചലനത്തെ ആശ്രയിച്ചിരിക്കുന്നു അതേ സമയം അത് ധാരാളം ഊർജ്ജം ഉപയോഗിക്കുന്നു കൂടാതെ വേസ്റ്റ് ഹീറ്റ് വീണ്ടെടുക്കുന്നതിന് നല്ല സാധ്യതയുണ്ട് പക്ഷേ ഇതിന് പ്രശ്നങ്ങളുണ്ട് വേസ്റ്റ് ഹീറ്റ് വീണ്ടെടുക്കുന്നതിനു വ്യക്തമായും ഇത് ചലിക്കുന്ന സിസ്റ്റത്തിന്റെ വിലയോ ഭാരമോ വർദ്ധിപ്പിക്കുകയും അതിന്റെ മത്സരശേഷിയിൽ കാര്യക്ഷമതയെ ദോഷകരമായി ബാധിക്കുകയും ചെയ്തേക്കാം പക്ഷേ റെയിൽവേ വ്യവസായങ്ങൾക്ക് സാധ്യതയുണ്ട് അതുപോലെ വലിയ കപ്പലുകൾ വേസ്റ്റ് ഹീറ്റ് റിക്കവറി എയർലൈനറുകളുടെ പ്രവർത്തനച്ചെലവ് കുറയ്ക്കുന്നതിനുള്ള ഒരു നല്ല തത്വമാണ് ഊർജ്ജ തത്വങ്ങൾ ഉണ്ട് വ്യക്തമായും വേസ്റ്റ് ഹീറ്റ് റിക്കവറി ഇന്ധനച്ചെലവ് കുറയ്ക്കാൻ കഴിയും ഇതാണ് വ്യവസായങ്ങളിൽ ഉള്ള സാധ്യത തുടർന്ന് ഭക്ഷണപാനീയ വ്യവസായത്തിലും പിന്നെ തണുപ്പിക്കൽ പ്രക്രിയകൾ ഹീറ്റിങ് വെൻ്റിലേഷൻ ആൻഡ് എയർ കണ്ടീഷനിംഗും റഫ്രിജറേഷൻ ക്രയോജനിക്സ് എന്നിവയിൽ എല്ലാം വേസ്റ്റ് ഹീറ്റ് റിക്കവറി സാധ്യതകൾ ഉണ്ട് ഇത് കൊണ്ട് ഇപ്പോൾ നിർത്താൻ ഞാൻ ആഗ്രഹിക്കുന്നു ഞങ്ങളുടെ അടുത്ത പ്രഭാഷണത്തിൽ ഇവയുമായി ഞങ്ങൾ തുടരും മാത്രമല്ല വരാനിരിക്കുന്ന പ്രഭാഷണത്തിൽ കൂടുതൽ വേസ്റ്റ് ഹീറ്റ് റിക്കവറി കാണുകയും ചെയ്യും